NPTEL മുഖേനയുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ പേര് ആരാധ്ന മാലിക് ഈ കോഴ്സിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ പ്രഭാഷണത്തിൽ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും മനുഷ്യവിഭവശേഷി മാനേജർമാർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അന്താരാഷ്ട്ര കമ്പനികളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് വിദേശത്ത് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അതുപോലെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ജോലിയിൽ പ്രവേശിക്കുന്ന വിദേശികളും ഉണ്ട് അതിനാൽ നമുക്ക് അതുമായി മുന്നോട്ട് പോവാം അന്താരാഷ്ട്ര എച്ച് കൂടാതെ ഇന്നത്തെ വിഷയം അന്താരാഷ്ട്ര എച്ച്ആർഎമ്മിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്നതാണ് ബ്രിസ്കോ ഷുലർ ക്ലോസ് ഗോമസ് മെജിയ ബാൽകിൻ കാർഡി Briscoe Schuler Claus and Gomez Mejia Balkin Cardy എന്നിവരുടെ ഈ പുസ്തകമാണ് സ്രോതസ്സുകൾ ഈ പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നിട്ടുണ്ട് അന്താരാഷ്ട്ര പശ്ചാത്തലത്തിൽ മാനവ വിഭവശേഷി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളിലൊന്നാണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ ഈ വിവര സംവിധാനങ്ങൾ മറ്റൊന്നുമല്ല മാനവ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട ജീവനക്കാരെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അവരുടെ വൈദഗ്ധ്യം അവരുടെ ബയോഡാറ്റ ശമ്പള സ്കെയിലുകൾ അവർ ഓർഗനൈസേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വർഷങ്ങളുടെ എണ്ണം എത്ര തവണ അവർ ലീവ് എടുത്തിട്ടുണ്ട് അവർ ജോലി ചെയ്ത മണിക്കൂറുകളുടെ എണ്ണം മുതലായ ഡാറ്റ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് അതിനാൽ ഈ ഡാറ്റയെല്ലാം അവർ ജോലി ചെയ്തിട്ടുള്ള സ്ഥാനങ്ങൾ അവരുടെ ജോലികൾ എന്തൊക്കെയാണ് മുതലായവ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന വളരെ സങ്കീർണ്ണമായ ഈ പ്രോഗ്രാമുകളിൽ സംഭരിച്ചിരിക്കുന്നു എനിക്ക് വളരെ പരിചിതമായ ഐഐടിയിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിനെ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നു ഇത് ERP ആണ് സാധാരണയായി ERP എന്നറിയപ്പെടുന്നു മറ്റ് നിരവധി കാര്യങ്ങൾക്ക് പുറമേ എച്ച്ആർ ബന്ധപ്പെട്ട ഡാറ്റ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു അതിനാൽ ഇവ വളരെ സങ്കീർണ്ണമായ പ്രോഗ്രാമുകളാണ് കൂടാതെ അവർ എല്ലാത്തരം വിവരങ്ങളും കൈകാര്യം ചെയ്യുന്നു കൂടാതെ അവ പരസ്പരം വ്യത്യസ്ത കാര്യങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അവ വളരെ വളരെ അത്യാവശ്യമാണ് അതായത് അവ ആവശ്യമായി വന്നിരിക്കുന്നു നേരത്തെ അവ ആവശ്യമില്ലായിരുന്നു പക്ഷേ നമ്മളുടെ പക്കലുള്ള സങ്കീർണ്ണ വിവരങ്ങളുടെ അളവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവ ഒരു പ്രധാന ഉപകരണമായി മാറിയിരിക്കുന്നു ഈ പ്രോഗ്രാമുകളുടെ സഹായത്തോടെ പോലും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിലെ ആദ്യത്തെ പ്രശ്നം ഓരോ രാജ്യത്തും പ്രവർത്തനക്ഷമമായ തൊഴിലാളികളെ ട്രാക്ക് ചെയ്യുന്നതാണ് ആരാണ് എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഈ പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന അവസരങ്ങൾക്കിടയിലും നമ്മൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു ആരാണ് എവിടെയാണ് എത്ര നേരം ജോലി ചെയ്യുന്നു എന്നതിന്റെ ട്രാക്ക് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് മാതൃരാജ്യത്തെ ബന്ധപ്പെടാനുള്ള വിവരങ്ങളും വിദേശ വിലാസങ്ങളും മറ്റും ഉൾപ്പെടെയുള്ള ദീർഘകാല അന്താരാഷ്ട്ര അസൈനികളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നു അസൈൻമെന്റുകളിൽ ആളുകളെ വിദേശത്തേക്ക് അയയ്ക്കുമ്പോൾ അവർക്ക് സ്ഥാനങ്ങൾ മാറിയേക്കാം അവർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം അവർക്ക് വിസ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവർ അവരുടെ കുടുംബങ്ങളെ കൊണ്ടുവന്നേക്കാം അത് ഓർഗനൈസേഷൻ സ്പോൺസർ ചെയ്യുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഗനൈസേഷൻ ഭാഗികമായി സ്പോൺസർ ചെയ്യുന്നു അവർ വിദേശത്ത് ഒരു അന്താരാഷ്ട്ര നിയമനത്തിലാണെങ്കിൽ അവർ വിദേശ രാജ്യത്തിനുള്ളിൽ വിലാസങ്ങൾ മാറ്റിയേക്കാം അവരുടെ വീട്ടുവിലാസം മാറിയേക്കാം അവരുടെ സ്ഥിരം വിലാസം മാറിയേക്കാം അവരുടെ വിസ നില മാറിയേക്കാം അതിനാൽ ഭാവിയിലെ ഉപയോഗത്തിനായി ഇതെല്ലാം രേഖപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും അവരുടെ വിദേശ സന്ദർശനം ഓർഗനൈസേഷൻ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടാതെ മാതൃരാജ്യ ഓഫീസും വിദേശ രാജ്യ ഓഫീസും തമ്മിൽ സഖ്യം ഉണ്ടായിരിക്കണം അതിനാൽ വിദേശത്തേക്ക് പോകുന്ന ഓരോ ജീവനക്കാരനെയും കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം തുല്യരായിരിക്കണം ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങളുടെ സങ്കീർണ്ണത നിങ്ങൾക്ക് ഊഹിക്കാം അതിനാൽ ഇതും ഒരു പ്രശ്നമായി മാറിയേക്കാം പക്ഷേ ഇത് എച്ച്ആർ ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് തുടർന്ന് വിപുലീകൃത ബിസിനസ്സ് യാത്രകളിലോ അസൈൻമെന്റുകളിലോ ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിൽക്കുന്ന ഹ്രസ്വകാല അന്തർദേശീയ അസൈനികളുടെ ട്രാക്ക് സൂക്ഷിക്കുക അതിനാൽ ദീർഘകാല അസൈനികളുടെ ഡാറ്റയിൽ ശേഖരിക്കാൻ കുറച്ച് സമയമുണ്ട് പക്ഷേ ഹ്രസ്വകാല സന്ദർശനത്തിന്റെ കാര്യമോ ഒരാൾ ഒരു വിദേശ കാര്യാലയത്തിലേക്ക് രണ്ടു ദിവസത്തേക്ക് ഒരു മീറ്റിംഗിനായി പോകുന്നു ഒരു വിസ ക്രമീകരിക്കേണ്ടതുണ്ട് താമസസ്ഥലം ക്രമീകരിക്കണം പ്രതിദിന അലവൻസ് വ്യക്തിഗത ആകസ്മിക അലവൻസ് ഈ വ്യക്തിക്ക് നൽകേണ്ടതുണ്ട് ഈ വ്യക്തി ഓഫീസിൽ ചെലവഴിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കണക്കാക്കേണ്ടതുണ്ട് ആ ഓഫീസിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ വ്യക്തി ചെലവഴിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കണക്കാക്കേണ്ടതുണ്ട് പിന്നെ ഒരു വ്യക്തി ആദ്യമായി ഒരു വിദേശ രാജ്യം സന്ദർശിക്കുകയാണെങ്കിൽ ആ വ്യക്തി കുറച്ച് ദിവസത്തേക്ക് അവധിയെടുത്ത് ആ വിദേശ രാജ്യത്ത് കുറച്ച് ദിവസം ആ രാജ്യം എങ്ങനെയാണെന്ന് കാണാൻ തീരുമാനിച്ചേക്കാം പല സംഘടനകളും ഇത് അനുവദിക്കുന്നുമുണ്ട് യാത്രാ ചെലവ് ഇതിനകം ഉൾപ്പെടുത്തിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആ അധിക ദിവസങ്ങൾക്ക് നിങ്ങൾ പണം നൽകുന്നു പക്ഷേ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടാകാം അതിനാൽ ഇതെല്ലാം സ്ഥാപനം പരിപാലിക്കുന്നു കൂടാതെ ഇതെല്ലാം രേഖപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ശരിക്കും സങ്കീർണ്ണമാണെന്ന് തോന്നാം ആ കാലയളവിന്റെ എത്രത്തോളം ആ വ്യക്തി ഓഫീസിന് പുറത്ത് ചെലവഴിച്ചത് ഔദ്യോഗിക ജോലികൾക്കായിട്ടായിരുന്നു യാത്രയ്ക്ക് എത്ര ദിവസം അനുവദിച്ചു അവധിയായി എത്ര ദിവസം അനുവദിച്ചു എന്താണ് സംഭവിച്ചത് ആ വ്യക്തി എവിടെയാണ് താമസിച്ചിരുന്നത് കമ്പനി അനുവദിച്ച ചെലവിൽ നിന്ന് ആ വ്യക്തി എത്രമാത്രം ചെലവഴിച്ചു അതിനാൽ അതെല്ലാം ട്രാക്ക് ചെയ്യുകയും റെക്കോർഡ് സൂക്ഷിക്കുകയും വേണം കൂടാതെ അത് ഒരു പ്രശ്നമായി മാറിയേക്കാം കൂടാതെ എത്ര ദിവസം ഏത് രാജ്യത്ത് ചിലപ്പോൾ വിവിധ രാജ്യങ്ങളിലെ താമസങ്ങൾ സംയോജിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം ഉദാഹരണത്തിന് ഒരു വ്യക്തി യൂറോപ്പിലേക്ക് പോയാൽ ആ ഒരു യാത്രയിൽ തന്നെ പല രാജ്യങ്ങളും കവർ ചെയ്യാം കാരണം യൂറോപ്പ് വളരെ നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഇന്ത്യ അല്ലെങ്കിൽ യുഎസ് അല്ലെങ്കിൽ കാനഡ പോലുള്ള വലിയ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ രാജ്യങ്ങൾ ചെറുതാണ് അതിനാൽ ആളുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നടക്കുന്നത് വ്യക്തിയുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എത്ര ചിലവായി എത്ര ചെലവാണ് കമ്പനി വഹിക്കുന്നത് എല്ലാം സൂക്ഷിക്കണം അതായത് അതെല്ലാം രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇന്റർനാഷണൽ അസൈനികളുടെ നഷ്ടപരിഹാരത്തിന്റെയും ആനുകൂല്യ പാക്കേജുകളുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നു താരതമ്യപ്പെടുത്താവുന്ന ചില വിവരങ്ങളിൽ മിക്ക അന്തർദേശീയ അസൈനികൾക്കും തനതായ നഷ്ടപരിഹാര പാക്കേജുകൾ ഉള്ളതിനാൽ ഇത് വളരെ സങ്കീർണ്ണവും ബുദ്ധിമുട്ടുള്ളതുമായി മാറുന്നു കാരണം ഓരോ അസൈനിക്കും തനതായ ആവശ്യങ്ങളുടെ ഒരു കൂട്ടവും നഷ്ടപരിഹാര പാക്കേജിന്റെ തനതായ സെറ്റും ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരു ഘട്ടത്തിലായിരിക്കാം കൂടാതെ നിങ്ങളുടെ പങ്കാളിയുടെ വിസയെ ആശ്രിത വിസയായി സ്പോൺസർ ചെയ്യാൻ കമ്പനി തീരുമാനിക്കുന്നു അല്ലെങ്കിൽ കമ്പനി പറയുന്നു ശരി ഞങ്ങൾ ഗവൺമെന്റിനോട് പറയാം നിങ്ങളുടെ പങ്കാളി ഇതാണ് ഞങ്ങൾ ഭാഗിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങളുടെ കുട്ടികൾ ഏത് ഘട്ടത്തിലാണ് എന്നതിനെ ആശ്രയിച്ച് ഒരു വിദേശ രാജ്യത്ത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചേക്കാം നിങ്ങൾക്കറിയാമോ അവർ സ്കൂളിലാണെങ്കിൽ കുട്ടികളുടെ സ്കൂളിന്റെ ഫീസിന്റെ ഒരു ഭാഗം അടയ്ക്കാൻ അവർ തീരുമാനിച്ചേക്കാം അതിനാൽ അതെല്ലാം കണക്കിലെടുക്കണം കൂടാതെ അതെല്ലാം ഒരു റെക്കോർഡ് ആയി സൂക്ഷിക്കണം കൂടാതെ ആരാണ് പോകുന്നത് എവിടെ എന്ത് ആവശ്യത്തിനായി എത്ര ദിവസം എത്ര മാസം എത്ര വർഷം ഒരാൾ ഒരു വിദേശരാജ്യത്ത് താമസിക്കുന്നത് എന്നിവയെല്ലാം ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് അതിനാൽ അതെല്ലാം കണക്കിലെടുക്കണം കുട്ടികളുടെ ട്യൂഷൻ ഫീസ് അടയ്ക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട് നിങ്ങൾ വിദേശ രാജ്യത്ത് ആരുടെയെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നഷ്ടപരിഹാരം നൽകിയാൽ പിന്നെ യുണൈറ്റഡ് കിംഗ്ഡം പോലെയുള്ള ചെലവേറിയ രാജ്യത്ത് ബംഗ്ലദേശ് അല്ലെങ്കിൽ ശ്രീലങ്ക പോലെയുള്ള ചെലവുകുറഞ്ഞ രാജ്യങ്ങളിൽ ജീവനക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ എത്രമാത്രം ചെലവഴിക്കുന്നു എന്നത് തമ്മിൽ ചില സമാനതകൾ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നത് താരതമ്യേനയാണ് അതിനാൽ നിങ്ങൾ ഇത് തുല്യതയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് പണം വാങ്ങൽ ശേഷിയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഞങ്ങൾ പ്രൈവറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പണം ചിലവാക്കില്ല എന്ന് പറഞ്ഞ് കണക്കാക്കുമോ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ മാത്രമേ പണം നൽകൂ പക്ഷേ നിങ്ങൾ അവിടെ പോയാൽ സർക്കാർ നടത്തുന്ന സ്കൂൾ അത്ര മികച്ചതല്ല അതിനാൽ നിങ്ങളുടെ കുട്ടിയെ ഒരു സ്വകാര്യ സ്കൂളിൽ അയയ്ക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു അതിനാൽ നിങ്ങൾ എങ്ങനെ എത്ര പണം ഓർഗനൈസേഷൻ നൽകുന്നു നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എത്ര പണം നൽകുന്നു അതിനാൽ ഈ സങ്കീർണ്ണതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കൂടാതെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഇത് ഒരു വെല്ലുവിളിയായി മാറുന്നു കാരണം പ്രത്യേകിച്ച് നിങ്ങൾ പണത്തിന്റെ കാര്യത്തിൽ പാരിറ്റി parity കണക്കാക്കുമ്പോൾ അതായത് ഇപ്പോൾ പൌണ്ട് സ്റ്റെർലിംഗ് Pound Sterling പോലുള്ള ഒരു കറൻസിയുടെ മൂല്യം ചൈനീസ് യെൻ പോലെയുള്ള ഒരു കറൻസിയുടെ മൂല്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കാം അതിനാൽ നിങ്ങൾ എവിടെയാണെന്ന് ക്ഷമിക്കണം ജാപ്പനീസ് യെൻ അതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ശതമാനം കണക്കാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് പാരിറ്റി കണക്കാക്കുന്നത് എന്നത് ഒരു പ്രശ്നമായി മാറുന്നു അന്താരാഷ്ട്ര മാനവ വിഭവശേഷി വിവര സംവിധാനങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ലോകമെമ്പാടുമുള്ള എല്ലാ ജീവനക്കാർക്കും ഐഡന്റിഫിക്കേഷൻ നമ്പറുകൾ നൽകുന്നു കൂടാതെ ഇവ സ്റ്റാൻഡേർഡ് ചെയ്യാനുള്ള ഒരു മാർഗവും കാരണം പല രാജ്യങ്ങൾക്കും അവരുടേതായ തിരിച്ചറിയൽ നമ്പറുകളുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ജീവനക്കാരെ തിരിച്ചറിയാൻ നമ്മൾ തിരിച്ചറിയൽ നമ്പറുകൾ ഉപയോഗിക്കുന്നു എത്ര തവണ നമുക്ക് അവരെ പേരുകൊണ്ട് ഓർക്കാൻ കഴിയും കൂടാതെ പലതവണ സമാന പേരുകളുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരേ പേരുകൾ വന്നേക്കാം അതിനാൽ നമ്മൾ ഐഡന്റിഫിക്കേഷൻ നമ്പറുകൾ നൽകുന്നു കൂടാതെ ആ ഐഡന്റിഫിക്കേഷൻ നമ്പറുകൾ പ്രവർത്തിക്കുന്ന രാജ്യത്ത് ഐഡന്റിഫിക്കേഷൻ നമ്പറുകൾ നൽകുന്ന രീതിയുമായി വിന്യസിക്കേണ്ടതുണ്ട് അതിനാൽ ഈ വ്യത്യസ്ത സങ്കീർണ്ണതകളെ നേരിടാൻ സിസ്റ്റം സജ്ജമാകേണ്ടതുണ്ട് വൈവിധ്യമാർന്ന ആവശ്യകതകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ബഹുഭാഷാ കഴിവുകളും ഫീൽഡുകളും ഉള്ളത് ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിൽ പേരുകൾ വളരെ കൂടുതലായിരിക്കാം വളരെ നീണ്ടതായിരിക്കാം ചില രാജ്യങ്ങളിൽ പേരുകൾക്ക് മുന്നിൽ കുറേ ചുരുക്കെഴുത്തുകൾ ഉണ്ടായിരിക്കാം ചില രാജ്യങ്ങളിൽ വിലാസങ്ങൾ ദൈർഘ്യമേറിയതായിരിക്കാം പിൻ കോഡുകളുടെയോ സിപ് കോഡുകളുടെയോ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ഇത് പിൻ കോഡ് അതായത് തപാൽ സൂചിക നമ്പർ എന്നാണ് അറിയപ്പെടുന്നത് യുഎസ് അതിനെ സിപ് കോഡുകൾ എന്ന് വിളിക്കുന്നു യുഎസ് സിപ് കോഡുകൾ അഞ്ച് അക്കങ്ങളാണ് ഇന്ത്യയിൽ പിൻ കോഡുകൾ ആറ് അക്കങ്ങൾ നീളമുള്ളതാണ് ഇപ്പോൾ പിൻ കോഡിലും സിപ് കോഡിലും ഉള്ള വ്യത്യാസം ഉൾക്കൊള്ളാൻ ആ സിസ്റ്റം വേണ്ടത്ര വഴക്കമുള്ളതായിരിക്കണം ഞാൻ അർത്ഥമാക്കുന്നത് അവ രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങൾക്കായുള്ള തിരിച്ചറിയൽ നമ്പറുകൾ ആണ് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ സിസ്റ്റത്തിന് അഞ്ച് നമ്പറുകൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കുള്ള പിൻ കോഡ് നൽകാനാവില്ല അതിനാൽ അതെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട് ക്ഷമിക്കണം ഒന്നിലധികം ഇണകൾ ചില രാജ്യങ്ങളിൽ ആളുകൾക്ക് ഒന്നിലധികം ഇണകളും ഉണ്ടായിരിക്കാം കൂടാതെ അത് ആ രാജ്യത്ത് നൽകപ്പെട്ടതാണ് അതിനാൽ അത് കണക്കിലെടുക്കണം ശമ്പളപ്പട്ടിക തയ്യാറാക്കുവാൻ വിദേശ കറൻസി കേന്ദ്രീകരിക്കുന്നത് അത് ദിവസേന വ്യത്യാസപ്പെടാം ഇപ്പോൾ നിങ്ങൾ തീർച്ചയായും പ്രാദേശിക കറൻസിയിൽ ജീവനക്കാർക്ക് പണം നൽകണമെന്ന് തീരുമാനിക്കാം പക്ഷേ അവർ പോകുന്നതിന് മുമ്പ് തുല്യത തീരുമാനിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ പറയുന്നു ഇത്രയധികം ഡോളർന് തുല്യമായ ഇത്രയധികം ഇന്ത്യൻ രൂപ ഇപ്പോൾ ഡോളറിന്റെ നിരക്ക് നിങ്ങൾക്കറിയാമോ അമേരിക്കൻ ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നു അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് അത് കണക്കിലെടുക്കുക ഡോളറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ശമ്പളം കുറയ്ക്കുന്നുണ്ടോ കാരണം പ്രാദേശികമായി അവരുടെ ചെലവുകൾ കുറയില്ല കൂടാതെ നിങ്ങൾക്കറിയാമോ രൂപയുടെ മൂല്യം കുറയുകയാണെങ്കിൽ കാലക്രമേണ കറൻസി നിരക്കുകളിൽ ഈ മാറ്റങ്ങൾക്ക് നിങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് അത് കണക്കിലെടുക്കുക നഷ്ടപരിഹാരത്തിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിംഗ് രാജ്യങ്ങൾ തോറും വ്യത്യാസപ്പെടുന്നു അതിനാൽ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നിങ്ങൾ എങ്ങനെ ഫോർമാറ്റ് ചെയ്യുന്നു നിങ്ങൾ അവ എങ്ങനെ കോഡ് ചെയ്യുന്നു മുതലായവ വിവിധ കറൻസികളും കറൻസി ഏറ്റക്കുറച്ചിലുകളും കണക്കിലെടുത്ത് ബഡ്ജറ്റിംഗും പേറോൾ ട്രാക്കിങ്ങും ചെയ്യുക വിവിധ രാജ്യങ്ങളിലെ സർക്കാർ സ്വകാര്യ ആരോഗ്യം പെൻഷൻ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഒരു വിദേശ രാജ്യത്ത് ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു ജീവനക്കാരനുണ്ട് ആ രാജ്യത്തിന്റെ കറൻസിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നു ഇപ്പോൾ അത് ഒരു പ്രശ്നമായി മാറിയേക്കാം നിങ്ങൾ ഇന്ത്യയിലാണ് അധിഷ്ഠിതമെങ്കിൽ കറൻസി ഉള്ള ഒരു രാജ്യത്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ കറൻസിയുടെ മൂല്യം ഇന്ത്യൻ രൂപയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പതിവായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൂടാതെ ഇതെല്ലാം ബജറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആറ് മാസം കഴിഞ്ഞ് എത്ര ഇന്ത്യൻ രൂപയാണ് ഒരു യുഎസ് ഡോളർ എന്ന് നിങ്ങൾക്ക് എങ്ങനെ പ്രവചിക്കാൻ കഴിയും തീർച്ചയായും പ്രോഗ്രാമുകളുണ്ട് അത് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട് പക്ഷേ കൃത്യമായ ബജറ്റ് തയ്യാറാക്കാൻ കഴിയില്ല കൂടാതെ ആസൂത്രണത്തിനെതിരെ കേസെടുക്കാൻ കഴിയില്ല ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടിൻജൻസി ഫണ്ടുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം കറൻസി നിരക്കുകൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ അത് നിങ്ങളെ വീണ്ടും കണക്കുകൂട്ടലിലേക്ക് നയിച്ചേക്കാം നിങ്ങൾ വീണ്ടും ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും കണക്കാക്കേണ്ടതുണ്ട് കൂടാതെ അത് പ്രോഗ്രാമിന് ഒരു പ്രശ്നമുണ്ടാക്കാം അവധിക്കും പണം ലഭ്യമായ ടൈം ഓഫിനും തമ്മിൽ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കുള്ള പ്രധാന വ്യതിയാനങ്ങൾ എന്താണ് ടൈം ഓഫ് അതിനാൽ എങ്ങനെയാണ് ഒരാളെ ഒരു സജീവ ഹെഡ്കൌണ്ടിൽ ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് നിങ്ങൾ അടിസ്ഥാനപരമായി അലാസ്കയിൽ ആണ് കൂടാതെ അവിടേ ഒരു വലിയ മഞ്ഞുവീഴ്ചയുണ്ടായി നിങ്ങൾ അവിടെ പെട്ടുകിടക്കുകയാണ് നിങ്ങൾക്ക് ഓഫീസിൽ പോകാൻ കഴിയില്ല നിങ്ങൾക്ക് പോകണം പക്ഷേ നിങ്ങളുടെ വാതിലിന് പുറത്ത് 6 അടി മഞ്ഞ് ഉണ്ട് നിങ്ങൾ ഓഫീസിൽ എത്താത്തതിനാൽ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു അത് അവധിയായി കണക്കാക്കുമോ അല്ലെങ്കിൽ അത് പണം ലഭ്യമായ അവധിയായി കണക്കാക്കുമോ കാരണം എന്തുകൊണ്ടോ അവിടെ ഒരു വലിയ മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടുണ്ട് കൂടാതെ വൈദ്യുതി ലൈനുകൾ മുറിഞ്ഞിരിക്കാം ഒരുപക്ഷേ നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇത് പ്രവചിക്കാൻ കഴിയുമായിരുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഈ ജോലി വീട്ടിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഒരുപക്ഷേ പ്രാദേശിക അവധി ദിനങ്ങൾ ഉണ്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ പ്രാദേശിക അവധി ദിനങ്ങളുണ്ട് ഇക്കാരണത്താൽ നിങ്ങൾക്ക് ഓഫീസുകളിൽ എത്താൻ കഴിയില്ല ഇനി പ്രാദേശിക പ്രശ്നങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങൾ പരിഹരം കാണുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ കൽക്കട്ടയിൽ ഒരു ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതായത് കൽക്കട്ട നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം കൽക്കത്തയിലെ ഗതാഗതക്കുരുക്ക് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഡൽഹി അല്ലെങ്കിൽ ബോംബെ പോലും കുപ്രസിദ്ധമാണ് നിങ്ങൾ ഒരു ട്രാഫിക് ജാമിൽ കുടുങ്ങുന്നു കൃത്യസമയത്ത് ഓഫീസിൽ എത്താൻ അതിനാൽ നിങ്ങൾക്ക് കഴിയില്ല ആ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കുന്നു പക്ഷേ ആളുകൾക്ക് ഈ ഗതാഗതക്കുരുക്കിനെക്കുറിച്ച് അറിയാത്ത ഒരു രാജ്യത്താണ് ഓഫീസ് ആസ്ഥാനമെങ്കിൽ അവർ അത് കാലതാമസമായി കാണും അവർ പറയും നിങ്ങൾ അത് നിങ്ങളുടെ സമയത്തിൽ ബജറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂർ നേരത്തെ ഇറങ്ങുക ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഡൽഹി പോലുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾ രണ്ട് മണിക്കൂർ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഓഫീസിലെത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഓഫീസിൽ എത്തുന്ന അവസ്ഥയും ഉണ്ടാകാം അതിനാൽ ആ സമയ വ്യതിയാനത്തിനായി നിങ്ങൾ എങ്ങനെ ബജറ്റ് ചെയ്യുന്നു അതിനാൽ തൊഴിൽ കരാറുകളിൽ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തേക്കുള്ള അവയുടെ പ്രധാന വ്യതിയാനങ്ങൾ ഉണ്ടാകും ആ രാജ്യത്ത് ആളുകൾക്കുള്ള കരാറുകൾ എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത് അതിനാൽ വ്യവസ്ഥകൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് മിനിമം വേതനം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് ജോലി ചെയ്ത മണിക്കൂറുകളുടെയും അവധി ദിവസങ്ങളുടെയും എണ്ണം എങ്ങനെയാണ് ഇവയുടെ കണക്ക് നിങ്ങൾ കണക്കാക്കുന്നത് വീണ്ടും ഇവ ഓരോ രാജ്യത്തിനും ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമായിരിക്കും അവസാനിപ്പിക്കൽ ബാധ്യതകൾ നിങ്ങളുടെ ജീവനക്കാർ അവധി എടുത്താൽ നിങ്ങൾ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ നിങ്ങൾ അവർക്ക് എന്താണ് നൽകേണ്ടത് അതിനുള്ള നിങ്ങളുടെ ബാധ്യത എന്താണ് അത് നിങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യത്തെ നിയമത്തെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ അത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിരിക്കും കൂടാതെ ഒരു സാധാരണ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അത് ഒരു പ്രശ്നമായി മാറുന്നു അതിനാൽ അത് സിസ്റ്റത്തിൽ നിർമ്മിക്കേണ്ടതുണ്ട് വിവിധ തരം അന്താരാഷ്ട്ര അസൈനികൾക്കും കുടുംബങ്ങൾക്കും ബിസിനസ്സ് യാത്രക്കാർക്കും വേണ്ടിയുള്ള ട്രാക്കിംഗ് വിസകൾ പുതുക്കുന്നതിനുള്ള ഷെഡ്യൂളുകൾ മുതലായവ ഒരാൾ വിദേശ നിയമനത്തിന് വിദേശത്തേക്ക് പോകുന്നു പിന്നെ അയാളെ എന്തുകൊണ്ടോ പിരിച്ചുവിട്ടു അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിൽ ഇട്ടു അതിനിടയിൽ വിസയുടെ കാലാവധി അവസാനിക്കുന്നു എന്നാൽ പിന്നീട് ജോലിക്കാരൻ അവളെ അല്ലെങ്കിൽ അവനെ വീണ്ടും ജോലിക്കെടുക്കാൻ കഴിയും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അതിനാൽ അതിനിടയിൽ ഒരു കാലതാമസം ഉണ്ടായേക്കാം ഏത് വ്യവസ്ഥയിൽ നിങ്ങൾ വിസ പുതുക്കും ആ വ്യക്തി ഓണല്ല അല്ലെങ്കിൽ ആ വ്യക്തി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ആ സമയത്ത് തൽക്കാലം നിങ്ങൾ എന്തുചെയ്യും കൂടാതെ ഞാൻ അർത്ഥമാക്കുന്നത് എല്ലാത്തരം പ്രശ്നങ്ങളും ആ സമയത്ത് വരാം അതിനാൽ നിങ്ങൾ എങ്ങനെ വിസ പുതുക്കും ഒരുപക്ഷേ നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള വിസ പുതുക്കിയേക്കാം ഒരുപക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ ഒരു ഇന്റേൺ ആയി എടുത്തേക്കാം തുടർന്ന് ഇത് പിന്നീട് ഒരു സ്ഥിര ജോലിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അവിടെ വിസ മാറ്റം ഉണ്ടായിരിക്കണം അതിനാൽ ഇതെല്ലാം ഒരു എച്ച്ആർ സിസ്റ്റത്തിലേക്ക് നിർമ്മിക്കേണ്ടതുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സിസ്റ്റമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഓഫീസിൽ ഇരുന്ന് ഫയൽ പരിപാലിക്കേണ്ടതുണ്ട് അതോടൊപ്പം കാലാകാലങ്ങളിൽ നിയമങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം അത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും അതിനാൽ അത് വളരെ സങ്കീർണ്ണമായി മാറുന്നു കൂടാതെ നിങ്ങൾ വിസകളുടെ ട്രാക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു ജീവനക്കാരന്റെ വിസ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിസ പുതുക്കുവാൻ അല്ലെങ്കിൽ രാജ്യം വിടുവാൻ ജീവനക്കാരനെ ഓർമ്മിപ്പിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനാൽ നിങ്ങളോ ജീവനക്കാരനോ ശിക്ഷിക്കപ്പെടില്ല കാരണം നിങ്ങൾ വിസ സ്പോൺസർ ചെയ്യുകയും ആ വ്യക്തി വിസയിൽ തുടരാൻ തീരുമാനിക്കുകയും ചെയ്താൽ നിങ്ങൾ കുഴപ്പത്തിലായേക്കാം വിദ്യാഭ്യാസ പിന്തുണ ഉൾപ്പെടെയുള്ള അന്തർദേശീയ അസൈനികൾക്കായി കുടുംബ വിവരങ്ങൾ ട്രാക്കുചെയ്യുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനകം സംസാരിച്ചു അന്താരാഷ്ട്ര തൊഴിൽ പോസ്റ്റിംഗുകൾ ലൊക്കേഷനുകൾ സമയം ജോലി ഉത്തരവാദിത്തങ്ങൾ ബാധകമായ തൊഴിൽ കരാറുകൾ ആളുകൾക്ക് അവരുടെ ക്ലയന്റുകളുമായി സംസാരിക്കേണ്ടിവരുമ്പോൾ നിങ്ങൾ സമയവുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു മുതലായവ തൊഴിലിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ഓരോ രാജ്യത്തും വ്യത്യസ്തമായിരിക്കും എല്ലാ സ്ഥാപനങ്ങളുടെയും യൂണിയൻ കരാറുകളും അവയുടെ വ്യതിയാനങ്ങളുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങളൊരു ബഹുരാഷ്ട്ര കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ യൂണിയനുകൾ ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യകതകൾ അവരുടെ കരാറുകൾ അവരുമായുള്ള നിങ്ങളുടെ ധാരണ അവരുമായി ഇടപെടുന്നതിനുള്ള നിങ്ങളുടെ തന്ത്രങ്ങൾ എന്നിവ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിരിക്കും കൂടാതെ ഇതെല്ലാം ഒരു കേന്ദ്ര സ്ഥലത്ത് കൈകാര്യം ചെയ്യണം എച്ച്ആർ ഇൻഫർമേഷൻ സിസ്റ്റങ്ങളിലും അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുള്ള ബാക്കപ്പ് സിസ്റ്റങ്ങളിലുമുള്ള വ്യക്തിഗത വിവരങ്ങൾ പരിരക്ഷിക്കുന്ന ഡാറ്റാ സ്വകാര്യതാ നിയമങ്ങൾ അതിനാൽ നിങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഒരു രാജ്യത്തും ബാക്കപ്പ് വിവരങ്ങൾ മറ്റൊരു രാജ്യത്തും ആണ് കൂടാതെ ഡാറ്റ സ്വകാര്യതാ നിയമങ്ങൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായേക്കാം അതിനാൽ ഈ വ്യതിയാനങ്ങൾ എങ്ങനെ കണക്കാക്കാം ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യക്തിഗത ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒരു ജീവനക്കാരനെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് മാറ്റുന്നു ഇപ്പോൾ ആ സ്വകാര്യ ഡാറ്റ എങ്ങനെയെങ്കിലും കൈമാറേണ്ടതുണ്ട് ആ സ്വകാര്യ ഡാറ്റ നിങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നത് നിങ്ങൾ ബന്ധപ്പെട്ട വ്യക്തിക്ക് ഒരു ഡിസ്ക് നൽകുന്നുണ്ടോ നിങ്ങൾ അത് ഓൺലൈനായി കൈമാറുക നിങ്ങൾക്കറിയാമോ ഈ സ്വകാര്യ വിവരങ്ങൾ മറ്റാരെങ്കിലും മോഷ്ടിച്ചേക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡാറ്റ സുരക്ഷിതമായി കൈമാറുക എന്നത് ഒരു വലിയ ബാധ്യതയാണ് അതിനാൽ ചെയ്യേണ്ടതെല്ലാം വിവര സംവിധാനത്തിലൂടെയാണ് പുതിയ സംവിധാനത്തിൽ പ്രവേശിക്കേണ്ടതുണ്ടോ ഇപ്പോൾ എങ്ങനെ ചെയ്യാം അതെല്ലാം അതിനാൽ അത് ഒരു പ്രശ്നമായി മാറുന്നു ആഗോളതലത്തിൽ മനുഷ്യവിഭവശേഷിക്ക് human resources globally ചില വെല്ലുവിളികൾ പ്രവർത്തനങ്ങൾ ധനകാര്യം ഉൽപ്പാദനം വിപണനം വിൽപ്പന തുടങ്ങിയ ബിസിനസുകളുടെ മറ്റ് വശങ്ങൾക്കുള്ള ഉയർന്ന മുൻഗണന കാരണം മാനവ വിഭവശേഷി രംഗത്ത് മതിയായ അവസരങ്ങൾ ഇല്ല അതിനാൽ ബിസിനസിന്റെ മറ്റെല്ലാ വശങ്ങൾക്കും ഉയർന്ന മുൻഗണന ലഭിക്കുന്നു നിർഭാഗ്യവശാൽ ബിസിനസ്സുകൾ മനുഷ്യവിഭവശേഷിക്ക് അന്താരാഷ്ട്ര രംഗത്ത് വളരെ ഉയർന്ന മുൻഗണന നൽകുന്നില്ല ജീവനക്കാരുടെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു ഇത് ആളുകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയാണ് അവർ തങ്ങളുടെ ജോലികളിൽ കൂടുതൽ ഇടപെടുകയും വ്യാപൃതരാവുകയും ചെയ്യുന്നു കൂടാതെ ജീവനക്കാരുടെ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരുന്നു അതിനാൽ ആളുകൾ കൂടുതൽ ആവശ്യപ്പെടുന്നു തങ്ങളെത്തന്നെ കൂടുതൽ ഓർഗനൈസേഷന് നൽകുന്നു കൂടാതെ അതിന്റെ ജീവനക്കാരെ പരിപാലിക്കുന്ന കാര്യത്തിൽ ഓർഗനൈസേഷനിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുന്നു അതിനാൽ ജീവനക്കാരും ഓർഗനൈസേഷനും തമ്മിലുള്ള ബന്ധം കാലക്രമേണ കൂടുതൽ ശക്തമായി കൂടാതെ ആളുകൾ കൂടുതൽ ബോധവാന്മാരാകുക കാരണം അത് ഒരു വെല്ലുവിളിയായി മാറുന്നു അപ്പോൾ ഈ ബന്ധം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അവരെ ഉപദേശിക്കാൻ നിങ്ങൾ അവരെക്കാൾ പത്ത് പടി മുന്നിലായിരിക്കണം ആഗോളവൽക്കരണവും സ്വതന്ത്ര വ്യാപാരവും പല രാജ്യങ്ങളും അവരുടെ നിയമ ചട്ടക്കൂടുകളിൽ മാറ്റം വരുത്തുന്നത്തിലേക്ക് നയിക്കുന്നു ഇത് അന്താരാഷ്ട്ര എച്ച്ആർ രീതികളെയും പ്രാദേശിക രാജ്യ മാനേജ്മെന്റിനെയും ബാധിക്കുന്നു സ്വതന്ത്രമായ വ്യാപാരമുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ജോലിക്കെടുക്കാൻ ആളുകൾ കൂടുതൽ തുറന്നിരിക്കുകയാണ് അനുയോജ്യമായ തൊഴിൽ എടുക്കാം അനുയോജ്യമായ ജീവനക്കാരെ ഏത് രാജ്യത്തുനിന്നും എടുക്കാം പക്ഷേ അത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഒരു കൂട്ടം വെല്ലുവിളികൾ കൊണ്ടുവരുന്നു അതിനാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ജോലിക്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാതൃരാജ്യത്തിന്റെയും ജീവനക്കാരന്റെയും നിയമങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ അത് രാജ്യത്തിന്റെ പ്രാദേശിക നിയമങ്ങളുമായി ലയിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് യോജിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനാൽ അത് ഒരു വെല്ലുവിളിയായി മാറുന്നു ലോകമെമ്പാടുമുള്ള അന്താരാഷ്ട്ര എച്ച്ആർ പ്രോഗ്രാമുകളുടെ ഡെലിവറിക്കായി മാനവ വിഭവശേഷി അടിസ്ഥാന സൌകര്യങ്ങളിൽ വളരെ കുറച്ച് സ്ഥിരത മാത്രമേ ഉള്ളൂ എച്ച്ആർ സംവിധാനങ്ങൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് ആളുകൾ വളരെ വ്യത്യസ്തമായ ചിന്താഗതികളിൽ നിന്നാണ് വരുന്നത് എന്ന വളരെ ലളിതമായ കാരണത്താൽ ആണ് ഇത് അവർ വളരെ വ്യത്യസ്തമായ നൈപുണ്യ സെറ്റുകൾ കൊണ്ടുവരുന്നു വളരെ വ്യത്യസ്തമായ പ്രതീക്ഷകളാണ് അവർ കൊണ്ടുവരുന്നത് ഉദാഹരണത്തിന് മിക്കവാറും പ്രാഥമികമായി കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംസ്കാരങ്ങളിൽ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ബ്യൂറോക്രാറ്റിക് പ്രവർത്തന ശൈലിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സർഗ്ഗാത്മകത ഒരു മുഖസ്തുതി സംഘടന ഒരു പുതിയ കാര്യമാണ് കൂടാതെ ഇത് ശീലമാക്കുവാൻ കുറച്ച് സമയം എടുക്കും മറുവശത്ത് വളരെ വ്യക്തിഗത സമൂഹങ്ങളിൽ നിന്നും വളരെ ലക്ഷ്യബോധമുള്ള സമൂഹങ്ങളിൽ നിന്നും വളരെ കുറച്ച് ശക്തി ദൂരത്തിൽ അല്ലെങ്കിൽ ചെറിയ പവർ അകലത്തിൽ കുറഞ്ഞ പവർ അകലത്തിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇടുങ്ങിയതായി അനുഭവപ്പെടാം കൂടാതെ നിയന്ത്രണങ്ങൾ അനുഭവപ്പെടാം വളരെ നന്നായി നിർവചിക്കപ്പെട്ട ഒരു ബ്യൂറോക്രാറ്റിക് ഘടനയിൽ വളരെ കർശനമായ ആജ്ഞാ ശൃംഖലയുള്ളതിൽ അവർ ഉത്തരവുകൾ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ അർത്ഥമാക്കുന്നത് അതായത് മാതൃസംഘടനയുടെ പ്രാദേശിക സംസ്കാരം നിലനിർത്താൻ ഒരു ശ്രമം നടത്തിയാലും വ്യത്യസ്ത ജീവനക്കാരെ വ്യത്യസ്ത തരത്തിലുള്ള സിസ്റ്റങ്ങളിലേക്ക് ക്രമീകരിക്കുന്നത് ഒരു പ്രശ്നമായി മാറുന്നു പ്രാദേശിക സംസ്കാരം കേറി വരാം കാരണം നമ്മൾ എല്ലാവരും ആ സംസ്കാരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അതിനാൽ ബാലൻസ് നിലനിർത്തേണ്ടത് ആവശ്യമാണ് പിന്നെ എനിക്കറിയില്ല അത് ഇവിടെ സൂചിപ്പിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് പക്ഷേ ഇതിന് വളരെ നല്ല ഉദാഹരണമാണ് ഔട്ട്സോഴ്സ് ചെയ്ത ഒരു ടിവി സീരീസ് കൂടാതെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണാൻ ആഗ്രഹിച്ചേക്കാം ഇത് തികച്ചും രസകരമായ ഒരു ചിത്രീകരണമാണ് ഒരു രാജ്യത്ത് നിന്ന് ആളുകൾ വന്ന് മറ്റൊരു രാജ്യത്ത് ഷോ നടത്താൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ രസകരമായ ഒരു ചിത്രീകരണം നിങ്ങൾ ഒരു രാജ്യത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത മറ്റൊരു രാജ്യത്ത് ഇരിക്കുന്ന ഒരാൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സ്വന്തം ചുറ്റുപാടിൽ നിന്ന് വന്ന് ഓർഗനൈസേഷന്റെ തലവനാകാൻ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമാണ് കാരണം അവർ നിങ്ങളുടെ സാഹചര്യം നന്നായി അറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കോർപ്പറേറ്റ് ആസ്ഥാനം പ്രാദേശിക ഓഫീസ് ചലനാത്മകതയെ മാനിക്കണമെന്ന് പ്രാദേശിക തൊഴിലാളികളും പ്രാദേശിക എച്ച്ആർ സ്റ്റാഫുകളും ആഗ്രഹിക്കുന്നു പ്രദേശവാസികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കാനും അഭിനന്ദിക്കാനും അവർക്ക് കോർപ്പറേറ്റ് ആസ്ഥാനം ആവശ്യമാണ് കൂടാതെ ഉന്നത മാനേജ്മെന്റിൽ എല്ലാവർക്കും പ്രാതിനിധ്യം വേണം പ്രാദേശിക സബ്സിഡിയറി ജോയിന്റ് വെഞ്ച്വർ മാനേജ്മെന്റുകൾ അവരെ നിയോഗിക്കുന്നു രാജ്യത്തിന്റെ ഭാഗമാക്കുവാൻ പ്രവാസികൾ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും അവരെ അവർ എങ്ങനെയുള്ള ആളുകൾ ആയിരിക്കുന്നുവോ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നതാണ് ഓർഗനൈസേഷൻ അതിന്റെ ജീവനക്കാർ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയും അവർ ഭാഗമായ ചുറ്റുപാടിന്റെ ഭാഗമാകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോകമെമ്പാടുമുള്ള ജീവനക്കാരുടെ ആവശ്യങ്ങളിൽ തുടർച്ചയായ മാറ്റം ജീവനക്കാർ തങ്ങൾക്കുവേണ്ടി വളരെ വ്യക്തമായി നിർവചിച്ചിരിക്കുന്ന തൊഴിൽ പാത ആഗ്രഹിക്കുന്നു പ്രാദേശിക ഓഫീസുകൾക്ക് അവ കോർപ്പറേറ്റ് ആസൂത്രണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി പലപ്പോഴും തോന്നുന്നു കോർപ്പറേറ്റ് ആസൂത്രണത്തിൽ അവരെ ഉൾപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു പ്രാദേശിക ബിസിനസ്സ് യൂണിറ്റുകൾ അവരെ നിസ്സാരമായി കാണാതെ ആസ്ഥാനത്ത് നിന്നുള്ള എക്സിക്യൂട്ടീവ് സന്ദർശനങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രതീക്ഷിക്കുന്നു ആസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ അവർ ആഗ്രഹിക്കുന്നു ലോകമെമ്പാടുമുള്ള വിദേശ സബ്സിഡിയറികളിലെ ജീവനക്കാർക്ക് അവരെ ഉൾപ്പെടുത്തുന്ന വേരിയബിൾ കോമ്പൻസേഷൻ സ്കീമുകൾ വേണം മൊത്തത്തിലുള്ള റിവാർഡ് ആസൂത്രണം സംബന്ധിച്ച് പാരന്റ് കമ്പനി തീരുമാനങ്ങളിൽ അവരെ ഉൾപ്പെടുത്തണം ഓർഗനൈസേഷന്റെ അന്തിമ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ അവരുടെ അഭിപ്രായം രേഖപെടുത്താനുള്ള സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്നു ബഹുരാഷ്ട്ര സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര മാനവ വിഭവശേഷി പ്രവർത്തനങ്ങളോടുള്ള വെല്ലുവിളികൾ അന്താരാഷ്ട്ര മാനവ വിഭവശേഷി പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ആഗോളവൽക്കരണവും സ്റ്റാൻഡേർഡൈസേഷനും ഇത് വളരെ പ്രധാനമാണ് എങ്കിലും വിവിധ രാജ്യങ്ങളിൽ സംസ്കാരത്തിലെ വ്യത്യാസങ്ങൾ കാരണം വളരെ ബുദ്ധിമുട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്ന സംഘടനാ രൂപകല്പന കാരണമുള്ള ആഗോള പുനർവിതരണവും ജോലിയുടെ സ്ഥലംമാറ്റവും അതായത് നിങ്ങളൊരു ബഹുരാഷ്ട്ര കമ്പനിയാണെങ്കിൽ ആളുകൾ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ ആഗ്രഹിക്കും അന്താരാഷ്ട്ര തലത്തിൽ അവസരം കൈമാറാൻ അവർ ആഗ്രഹിക്കുന്നു കൂടാതെ ഏറ്റെടുക്കുന്ന ബിസിനസ്സുകളുടെ ആഗിരണം ആഗോള തലത്തിൽ നിലവിലുള്ള പ്രവർത്തനങ്ങളുടെ ലയനം പ്രധാന എച്ച്ആർ പ്രക്രിയകൾ വികസിപ്പിക്കുന്നതിനും സമന്വയിപ്പിക്കുന്നതിനുമുള്ള സ്റ്റാഫിംഗ് ശ്രമങ്ങൾ അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അന്തർദേശീയ സംഘടനയുടെ എല്ലാ വ്യത്യസ്ത യൂണിറ്റുകളുമായും ഒരു പുനർനിർമ്മാണവും ഒന്നാണെന്ന തോന്നലും മാത്രമാണ് അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളുടെയും ഓർഗനൈസേഷൻ വികസനത്തിന്റെയും ദ്രുതഗതിയിലുള്ള ആരംഭം ബിസിനസ് സൈക്കിളിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ അവ പക്വത പ്രാപിക്കുമ്പോൾ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് ഈ വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിർണ്ണയിക്കും പ്രാദേശിക പ്രവർത്തനങ്ങളുടെ വൈദഗ്ധ്യത്തിന്റെ വർധിച്ച ആവശ്യകത കൂടുതൽ സങ്കീർണ്ണത എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളുടെ കഴിവുകൾ മാറ്റുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മനുഷ്യവിഭവശേഷി പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് മുതലായവ ഞാൻ ഉദ്ദേശിച്ചത് അവയ്ക്ക് ധരാളം വെല്ലുവിളികളും ഉണ്ട് ഞാൻ ഓരോന്നും ഒറ്റയ്ക്ക് വിശദീകരിക്കുന്നില്ല കാരണം അതെല്ലാം സ്വയം വിശദീകരിക്കുന്നതാണ് നിങ്ങൾക്ക് സ്ലൈഡുകൾ നൽകും പക്ഷേ അതായത് വിവിധ രാജ്യങ്ങളിലെ പ്രവർത്തനത്തിന്റെ സങ്കീർണ്ണത എച്ച്ആർ പ്രൊഫഷണലുകളായി നമ്മുടെ ജീവിതത്തെ വളരെ സങ്കീർണ്ണമാക്കുന്നു ഇത് വളരെ പ്രധാനമാണ് കമ്പനിയുടെ ജീവനക്കാർക്ക് ഒരു ശ്രദ്ധേയമായ മൂല്യനിർദ്ദേശം വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ആഗോള തൊഴിൽ വിപണിയിൽ ഉടനീളം സ്ഥാപനം പ്രതിനിധീകരിക്കുന്ന ബ്രാൻഡിനെ മനസ്സിലാക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു പ്രായോഗികമായി വ്യത്യസ്ത മൂല്യങ്ങളും വ്യത്യസ്ത ധാരണകളും ഉണ്ട് അതിനാൽ ബ്രാൻഡിനെ മൊത്തത്തിൽ ഒരു പ്രാദേശിക ബ്രാൻഡായിട്ടല്ലാതെ ഒരു അന്താരാഷ്ട്ര ബ്രാൻഡായി എങ്ങനെ വിപണനം ചെയ്യാമെന്ന് ശരിക്കും മനസ്സിലാക്കുന്നു ഇപ്പോഴും അഭിരുചിക്കനുസരിച്ച് ജീവനക്കാരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും സ്ഥാപനം ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളുമായി സമന്വയിപ്പിക്കുന്നു വികേന്ദ്രീകരണത്തിന്റെയും കേന്ദ്രീകരണത്തിന്റെയും തലത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടുമ്പോൾ എച്ച്ആർ പ്രൊഫഷണലുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും എന്ത് വികേന്ദ്രീകരിക്കണം പ്രാദേശിക ഓഫീസുകൾക്ക് എന്ത് കൈമാറണം കേന്ദ്രീകൃതമായി എന്ത് നിയന്ത്രിക്കണം മുതലായവ അതെല്ലാം വലിയ വെല്ലുവിളിയാണ് അന്താരാഷ്ട്ര എച്ച്ആർ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചില അവസരങ്ങൾ അന്താരാഷ്ട്ര എച്ച്ആർന്റെ പ്രൊഫഷണലൈസേഷൻ അതിനൊരു വഴിയുണ്ട് അതിന് ഒരു ആഗോള എച്ച്ആർ സർട്ടിഫിക്കേഷൻ ഓർഗനൈസേഷനുണ്ട് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അത് അന്താരാഷ്ട്ര എച്ച്ആർ യോഗ്യതാ വിടവ് കുറയ്ക്കുന്നു അതിനാൽ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു സ്ഥാപനത്തിന്റെ തന്ത്രപരമായ ആഗോള വീക്ഷണം നേടിയെടുക്കാൻ കഴിയുന്ന ആഗോള തലത്തിൽ ജീവനക്കാരെ ഫലപ്രദമായി ആകർഷിക്കാനും നിലനിർത്താനും ഇടപഴകാനും കഴിയുന്ന സംഘടനാ സംരംഭങ്ങളുടെ വികസനം അതിനാൽ ഓർഗനൈസേഷന് സജീവമായി മുൻകൈയെടുക്കാനും പ്രോഗ്രാമുകൾ സജീവമായി വികസിപ്പിക്കാനും മികച്ച കഴിവുകൾ നേടാനും അത് നിലനിർത്താനും ജീവനക്കാരെ സഹായിക്കാനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും കഴിയും അന്താരാഷ്ട്ര എച്ച്ആർ സുസ്ഥിരത വികസിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ചില ജോലികൾ എച്ച്ആർ നയങ്ങളെ കുറിച്ച് ലൈൻ മാനേജർമാരെ പഠിപ്പിക്കാനും സ്വാധീനിക്കാനും ഉള്ള കഴിവ് അതിനാൽ ജീവനക്കാരുടെ വിദ്യാഭ്യാസം ജീവനക്കാരുടെ സാങ്കേതിക കഴിവുകൾ സാങ്കേതികവിദ്യ സാക്ഷരത എന്നിവ വർദ്ധിപ്പിക്കുക മാറ്റങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് സംഭവിക്കുന്ന മാറ്റങ്ങളെ ഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് നേതൃത്വം എന്റർപ്രൈസിനുള്ളിലെ IHR സേവനങ്ങളുടെ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണലുകൾ വാഗ്ദാനം ചെയ്യുന്ന അവസരങ്ങൾക്കായി തിരയുകയും സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അത് ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് നിർവചിക്കുകയും അത് വകുപ്പുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു എച്ച്ആർഎമ്മിന്റെ നിരവധി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശാലമായ അറിവ് വികസിപ്പിക്കുന്നു അവയിൽ മികവ് പുലർത്തുന്നു നൂതന എച്ച്ആർ പോളിസികളുടെ വികസനത്തിലും നടപ്പാക്കലിലും ഉചിതമായ റിസ്ക് എടുക്കാൻ തയ്യാറാണ് IHR പോളിസികളുടെ സാമ്പത്തിക ആഘാതം പ്രകടിപ്പിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷനിലേക്ക് പോകുന്ന ഇൻപുട്ടിലും അതോടൊപ്പം ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ടിലും സ്വാധീനം ചെലുത്തുന്നു അതിനാൽ എല്ലാത്തിന്റെയും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എങ്ങനെയെന്ന് കണ്ടെത്തുക എന്നത് പ്രൊഫഷണലുകൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നു IHR വകുപ്പിന് എന്ത് ചെയ്യാൻ കഴിയും കഴിയുന്നത്ര അന്താരാഷ്ട്ര പരിചയമുള്ള ആളുകളെ നിയമിക്കുക അതിനാൽ അവർ എന്താണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അവർക്കറിയാം അന്തർദേശീയ പരിചയമുള്ള ആളുകളെ സ്ഥാപനത്തിലുടനീളം വിന്യസിക്കുക അവർ പോകട്ടെ അവരുടെ അനുഭവം എടുക്കട്ടെ മറ്റുള്ളവരെ സഹായിക്കട്ടെ ഈ അനുഭവത്തിൽ നിന്ന് പഠിക്കുക ആഗോളാടിസ്ഥാനത്തിൽ എങ്ങനെ റിക്രൂട്ട് ചെയ്യാമെന്നും അസൈൻ ചെയ്യാമെന്നും അറിയുക ഒപ്പം ജീവനക്കാരെ കഴിയുന്നത്ര സംതൃപ്തരാക്കുക അന്താരാഷ്ട്ര രംഗത്ത് എന്താണ് വേണ്ടതെന്ന് അറിയാൻ സ്ഥാപനത്തിന്റെ അന്താരാഷ്ട്ര വിവര ഇൻപുട്ടുകൾ വർദ്ധിപ്പിക്കുക അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയണം അതിനാൽ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ ആന്റിനകൾ ഉയർത്തിപ്പിടിക്കുകയും നമ്മുടെ വിവര ചാനലുകൾ വ്യക്തമായി സൂക്ഷിക്കുകയും വേണം ക്രോസ് കൾച്ചറൽ ആശയവിനിമയം മര്യാദകൾ പ്രോട്ടോക്കോൾ ചർച്ചാ ശൈലികൾ ധാർമ്മികത എന്നിവയിൽ എല്ലാവരെയും പരിശീലിപ്പിക്കുക അന്താരാഷ്ട്ര വികസന അസൈൻമെന്റുകൾ ഉറപ്പാക്കുക എച്ച്ആർ സർട്ടിഫിക്കേഷനിൽ ആഗോള പ്രോഗ്രാമുകൾ പിന്തുടരുക അത് നിങ്ങളെ കൂടുതൽ പഠിക്കാൻ സഹായിക്കും ഓർഗനൈസേഷന്റെ ആഗോള ലക്ഷ്യങ്ങൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് സ്വയം വളരേണ്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യുക അന്താരാഷ്ട്ര മാനവ വിഭവശേഷി വെല്ലുവിളികളുടെ ഈ ഭാഗത്ത് എനിക്ക് ഇന്ന് നിങ്ങൾക്കായി ഉള്ളത് ഇത്രെയുമാണ് അടുത്ത സെഷനിൽ മാനവ വിഭവശേഷി പഠനം നമ്മൾ തുടരും